കോഴ്സ് ഔപചാരികമായി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രജോദനത്തിനായി നമ്മൾ കാണുവാൻ പോകുന്ന പ്രോബ്ലങ്ങളുടെ തരത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ചർച്ചചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിമാന യാത്രയുടെ ഒരു പ്രോബ്ളത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത് നമുക്ക് രാജ്യത്തെ നിരവധി നഗരങ്ങളിൽ സേവനം ചെയ്യുന്ന ബാർബെറ്റ് എയർലൈൻസ് എന്ന ഒരു എയർലൈൻ ഉണ്ട് നിരവധി നഗരങ്ങളെ സേവിക്കുന്നുണ്ടെങ്കിലും ഇത് തീർച്ചയായും ഈ നഗരങ്ങളെയെല്ലാം നേരിട്ട് ബന്ധിപ്പിക്കുന്നില്ല ചില നഗരങ്ങളെ മാത്രമേ നേരിട്ടുള്ള ഫ്ലൈറ്റുകളിലൂടെ ബന്ധിപ്പിച്ചിട്ടുള്ളൂ മറ്റ് ജോഡി നഗരങ്ങൾക്കായി നിങ്ങൾ ഒരു ഹോപ്പിംഗ് ഫ്ലൈറ്റ് എടുത്ത് ഒരു ഇന്റർമീഡിയറ്റ് സിറ്റി വഴി പോകണം ഈ എയർലൈൻ നൽകുന്ന ഈ നെറ്റ്വർക്ക് യഥാർത്ഥത്തിൽ കണക്റ്റുചെയ്തിരിക്കുന്ന എല്ലാ ജോഡി നഗരങ്ങളും കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ആദ്യ ലക്ഷ്യം അതിനാൽ ഒരു കൂട്ടം ഫ്ലൈറ്റുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന A B എന്ന എല്ലാ ജോഡി നഗരങ്ങളും നമ്മൾ എങ്ങനെ കണ്ടെത്തും ആദ്യം നമ്മൾ നെറ്റ്വർക്ക് നോക്കേണ്ടതുണ്ട് നെറ്റ്വർക്ക് കണ്ടെത്തിയേക്കാവുന്ന ഒരു സാധാരണ മാർഗമാണിത് ഉദാഹരണത്തിന് നമ്മൾ ഒരു എയർലൈനിന്റെ ഇൻ ഫ്ലൈറ്റ്മാഗസിൻ തുറക്കുകയാണെങ്കിൽ ഒരു റൂട്ട് മാപ്പ് കണ്ടെത്താനാകും ഇത് ഇതുപോലെ എഴുതിയിരിക്കുന്നു ഇതിൽ രാജ്യത്തിന്റെ ഭൌതിക ഭൂപടമുണ്ട് അതിനോടൊപ്പം എയർലൈൻ സേവിക്കുന്ന നഗരങ്ങളും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ദില്ലി വാരണാസി അഹമ്മദാബാദ് മുതൽ തെക്ക് തിരുവനന്തപുരം വരെ പത്തോളം നഗരങ്ങലാണിതിലുള്ളത് ഫ്ലൈറ്റുകളെ സൂചിപ്പിക്കുന്നതിനായി ചില ആരോ മാർക്കുകളുണ്ട് ഈ വിമാനങ്ങളിൽ ചിലത് ഒരു ദിശയിലാണ് നിങ്ങൾക്ക് ദില്ലിയിൽ നിന്ന് വാരണാസിയിലേക്ക് പോകാം പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് ഡൽഹിയിലേക്ക് മടങ്ങാൻ കഴിയില്ല നിങ്ങൾ അഹമ്മദാബാദിൽ പോയി തിരികെ വരണം ഇത് വളരെ സാധാരണമാണ് എയർലൈനിന്റെ ഷെഡ്യൂളുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ത്രികോണ റൂട്ടുകളുണ്ടെന്ന് നമുക്ക് കണ്ടെത്താനാകും ഇതിൽ ഒരു ത്രികോണത്തിന് ചുറ്റും പോകുന്നിടത്ത് ഇടയ്ക്കിടെ ഹോപ്പ് ചെയ്യാതെ നേരിട്ട് മടങ്ങാൻ കഴിയില്ല മുംബൈ ദില്ലി അതേപോലെതന്നെ മുംബൈ കൊൽക്കത്ത പോലുള്ള ചില പ്രധാനപ്പെട്ട നഗരങ്ങളുടെ ജോഡി രണ്ട് ദിശകളിലേക്കും ബന്ധിപ്പിക്കാം നമ്മൾക്ക് ഈ പത്ത് നഗരങ്ങളുണ്ട് ഇപ്പോൾ വാരാണസിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കോ അതേപോലെ ഹൈദരാബാദിൽ നിന്ന് ദില്ലിയിലേക്കോ പോകുന്നത് ശരിക്കും സാധ്യമാണോ അല്ലയോ എന്നതാണ് നമുക്ക് അറിയേണ്ടത് അതിനാൽ പ്രോബ്ളം പരിഹരിക്കുന്നതിന് അവശ്യ വിശദാംശങ്ങൾ മാത്രം നിലനിർത്തി അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതരത്തിൽ ഒരു മോഡൽ ഉണ്ടാക്കുക എന്നതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ സാഹചര്യത്തിൽ ഈ നെറ്റ്വർക്കിന്റെ ഘടനയാണ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ഈ മാപ്പ് മാത്രമായി അത്രതന്നെ പ്രസക്തമല്ല നെറ്റ്വർക്കിലുള്ള എത്ര നഗരങ്ങളുണ്ട് അവ എങ്ങനെ ഫ്ലൈറ്റുകളിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ഈ ചാര നിറത്തിലുള്ള സർക്കിളുകളും ആരോ മാർക്കുകളും ഉള്ള ചുവടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ഈ നെറ്റ്വർക്കിനെ പ്രതിനിധീകരിക്കുന്നു ഈ നഗരങ്ങൾ ചാരനിറത്തിലുള്ള സർക്കിളുകളും ഫ്ലൈറ്റുകൾ ആരോ മാർക്കുകളുമാണ് ആരോ മാർക്കുകളുടെ ദിശ ഫ്ലൈറ്റുകളുടെ ദിശയെ സൂചിപ്പിക്കുന്നു ഒരു ദിശയിൽ ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഒരു ദിശാസൂചനയാണ് രണ്ട് അറ്റത്തും ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇത് ഒരു ദ്വിദിശ വിമാനമാണ് നഗരങ്ങളുടെ യഥാർത്ഥ പേരുകൾ അത്ര പ്രസക്തമല്ലാത്തതിനാൽ നമുക്ക് അവയെ 1 2 3 4 5 അല്ലെങ്കിൽ a b c d e അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകളോ ഉപയോഗിച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ കഴിയും ഇത്തരത്തിലുള്ള ഒരു ചിത്രത്തെ ഗ്രാഫ് എന്ന് വിളിക്കുന്നു നമ്മുടെ കോഴ്സിൽ ഈ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ ഗ്രാഫുകളെ കൂടുതൽ ഔപചാരികമായി പഠിക്കും എന്നാൽ ഒരു ഗ്രാഫ് ഇത്തരത്തിലുള്ള ഒരു ചിത്രം മാത്രമാണ് ഇതിന് ഈ ഡോട്ടുകൾ ഉപയോഗിച്ച് കാണിക്കുന്ന ചില നോഡുകളും കൂടാതെ എഡ്ജുകളും ഉണ്ട് ഈ യഥാർത്ഥ ചിത്രം അതിന്റെ അർത്ഥം മാറ്റാതെ തന്നെ മാറ്റി വരക്കാൻ കഴിയും എന്നതാണ് ഇത്തരത്തിൽ ഒരു അബ്സ്ട്രാക്ട് നിലയിലേക്ക് നീങ്ങുന്നതിന്റെ ഉപയോഗം ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഈ നഗരം നോക്കുകയാണെങ്കിൽ നമുക്ക് അത് വലത്തേക്ക് നീക്കാൻ കഴിയും മാത്രമല്ല ഇത് പ്രോബ്ലം സോൾവിങ്ങിൽ യാതൊരു വ്യത്യാസവും വരുത്തുന്നുമില്ല ഇവിടെ ഈ എഡ്ജ് ഈ വശത്തേക്ക് നീക്കി ക്രോസിംഗ് എഡ്ജുകളൊന്നും ഇല്ലാതാക്കി നമുക്ക് ഈ ചിത്രം ലളിതമാക്കാൻ കഴിയും നമ്മൾ ആരംഭിച്ച ഈ ചിത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി തോന്നുന്നുവെങ്കിലും ഇത് അതേ ചിത്രമാണ് അതായത് ഇത് അതേ നെറ്റ്വർക്കാണ് ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ കൈവശമുള്ള ഗ്രാഫ് ഇതുപോലെ ക്രോസിംഗ് എഡ്ജുകളൊന്നുമില്ലെന്ന് മനസ്സിലാക്കുന്നത് ഉപയോഗപ്രദമാണ് സാങ്കേതികമായി അത്തരമൊരു ഗ്രാഫിനെ പ്ലാനർ ഗ്രാഫ് എന്ന് വിളിക്കുന്നു ഇത്തരം ഗ്രാഫുകളെ എഡ്ജുകൾ ക്രോസ്സ് ചെയ്യാതെ ഒരു കടലാസിൽ വരയ്ക്കാനാകും മറ്റു ഗ്രാഫുകളെ അപേക്ഷിച്ചു പ്ലാനർ ഗ്രാഫുകൾക്കായി നമുക്ക് മികച്ച അൽഗോരിതങ്ങൾ ഉണ്ട് അത്തരമൊരു ഗ്രാഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരു പാത്ത് കണ്ടുപിടിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു പാത്ത് എന്നത് ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് പോകുന്ന എഡ്ജുളുടെ ക്രമം അതാണ് തീർച്ചയായും അതിന്റെ ദിശയും ശരിയായിരിക്കണം അതായത് A മുതൽ B വരെ പറക്കുന്ന ഫ്ലൈറ്റിനു B മുതൽ A വരെ പിന്നിലേക്ക് പോകാവാൻ കഴിയില്ല അതിനാൽ മറ്റൊരു ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് B യിൽ നിന്ന് A യിലേക് പോകുവാൻ കഴിയുകയില്ല നമ്മളുടെ ആദ്യത്തെ ചോദ്യം നമുക്ക് എങ്ങനെ ഈ ചിത്രത്തിനെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റാം എന്നതാണ് ഈ ഗ്രാഫിനെ പ്രതിനിധീകരിക്കുന്നതിന് അനുയോജ്യമായ ഒരു ഡാറ്റ സ്ട്രക്ചർ നമുക്ക് ആവശ്യമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്ന വിധത്തിൽ ഈ ഗ്രാഫിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ അത് കണക്റ്റിവിറ്റിയിലാണ് A യിൽ നിന്ന് B യിലേക്ക് നമ്മൾ എങ്ങനെ പോകാം അല്ലെങ്കിൽ നമുക്ക് A യിൽ നിന്ന് B യിലേക്ക് പോകാമോ അല്ലെങ്കിൽ എയിൽ നിന്ന് ഏതൊക്കെ നഗരങ്ങളിൽ എത്താൻ കഴിയും ഗ്രാഫിൽ ഈ നഗരങ്ങളെ പ്രതിനിധീകരിച്ച രീതി അനുസരിച്ച് അത്തരമൊരു അൽഗോരിതം നമ്മൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യും ഇത് നമ്മൾ ഗ്രാഫ് പ്രതിനിധീകരിക്കുന്ന രീതിയെ ആശ്രയിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗ്രാഫിനെ പ്രതിനിധീകരിക്കുവാനായി ഒന്നിലധികം രീതികൾ ഉണ്ടോ അവയിൽ ചിലതിന് മറ്റുള്ളവയെ അപേക്ഷിച്ച് കാര്യക്ഷമത കൂടുതലോ കുറവോ ആയ അൽഗോരിതം ഉണ്ടോ നമുക്കൊരു മികച്ച സൊല്യൂഷൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളാണിവ കാര്യക്ഷമതയുടെ കാര്യത്തിൽ ഒരു പ്രോബ്ളത്തിന്റെ സങ്കീർണ്ണത നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം നോക്കേണ്ടതുണ്ട് നമുക്ക് കൂടുതൽ നഗരങ്ങളുണ്ടെങ്കിൽ പ്രോബ്ളം കൂടുതൽ സങ്കീർണ്ണമാണെന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ വ്യക്തമാണ് അതിനാൽ നമുക്ക് N എന്ന് വിളിക്കാവുന്ന നഗരങ്ങളുടെ എണ്ണം തീർച്ചയായും ഒരു പാരാമീറ്ററാണ് അത് അൽഗോരിതം എത്രത്തോളം സങ്കീർണ്ണമാകുമെന്ന് നിർണ്ണയിക്കുന്നു അൽഗോരിതം എത്ര സങ്കീർണ്ണമാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ എത്ര സമയമെടുക്കും നെറ്റ്വർക്ക് എത്ര സങ്കീർണ്ണമാണെന്ന് എന്നൊക്കെ നിർണ്ണയിക്കുന്ന മറ്റൊരു ചോദ്യം നേരിട്ടുള്ള എത്ര ഫ്ലൈറ്റുകളാണുള്ളത് എന്നതാണ് വ്യക്തമായും അത്തരത്തിലുള്ള കുറച്ച് ഫ്ലൈറ്റുകളും കുറച്ച് സ്ഥലങ്ങളും ഉണ്ട് അവ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയും അത്തരത്തിലുള്ള കുറച്ച് സാധ്യതകൾ നമ്മൾ നോക്കേണ്ടതായുണ്ട് അതിനാൽ ഇതിൽ നിന്ന് പാതകളെ കണക്കാക്കുന്നത് N F എന്നിവയെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന് വളരെ വ്യക്തമാണ് അതായത് എല്ലായ്പ്പോഴും ഇരുപത് ഘട്ടങ്ങൾ മാത്രം എടുക്കുന്ന ഒരു അൽഗോരിതം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല അതിനു കുറച്ച് ഘട്ടങ്ങളിൽ N F എന്നിവയെ ഡിപെൻഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ എന്താണ് ഈ ഡിപെൻടെൻസി അത് എങ്ങനെ വളരുന്നു N ഇരട്ടിയാണെങ്കിൽ നമ്മളുടെ അൽഗോരിതം രണ്ട് മടങ്ങോ അതിൽ കൂടുതലോ സമയം എടുക്കുമോ ഇതിന് നാലിരട്ടി കൂടുതൽ സമയം എടുക്കുമോ N പത്തിരട്ടിയിലേക്ക് വളരുകയാണെങ്കിൽ ഇതിന് പത്തിരട്ടിയോ നൂറിരട്ടിയോ കൂടുതൽ സമയമോ എടുക്കുമോ N F എന്നിവയുമായുള്ള ഡിപെൻഡൻസി സംബന്ധിച്ച മറ്റൊരു ചോദ്യം നമുക്ക് എത്രത്തോളം വലിപ്പത്തിലുള്ള നെറ്റ്വർക്കുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും എയർലൈനിൽ ഇരുപത് ഫ്ലൈറ്റുകൾ ഉണ്ടെങ്കിൽപ്പോലും നമുക്ക് ഇപ്പോഴും ന്യായമായ സമയത്ത് ഉത്തരം നൽകാൻ കഴിയും ആരെങ്കിലും ഒരു ഓൺലൈൻ ബുക്കിംഗ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോളാണ് സാധാരണ ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നത് അങ്ങിനെയുള്ളപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മറുപടി കൊടുക്കേണ്ടതായിവരും ഒരു മണിക്കൂറിന് ശേഷം തിരികെ വന്ന് "അതെ തിരുവനന്തപുരത്ത് നിന്ന് കൊൽക്കത്തയിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്" എന്ന് പറഞ്ഞാൽ പോരാ അതിനാൽ നമ്മുടെ കാര്യക്ഷമതയുടെ പരിധി എന്താണ് ഒന്നിലധികം എയർലൈനുകൾ ഉൾപ്പെടുത്തുന്നതിനായി ഈ അൽഗോരിതം നമുക്ക് സ്കെയിൽ ചെയ്യാൻ കഴിയുമോ അതിനാൽ എല്ലാ എയർലൈനുകളിലെയും വിവരങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് A യിൽ നിന്ന് B യിലേക്ക് പോകുവാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ഒരു വെബ്സൈറ്റ് നമ്മുടെ പക്കലുണ്ട് അതിന്റെ പ്രവർത്തനം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന N F എന്നിവയുടെ കൂടിയ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ നോക്കിയ പ്രോബ്ളം എനിക്ക് A യിൽ നിന്ന് B യിലേക്ക് പോകുവാൻ പറ്റുമോ എന്നത് വളരെ ലളിതമായ ഒന്നാണ് എന്നാൽ മിക്കപ്പോഴും A യിൽ നിന്ന് B യിലേക്ക് എത്തിയാൽ മാത്രം മതിയാവില്ല തന്നിരിക്കുന്ന ചില സമയപരിധിക്കുള്ളിൽ A യിൽ നിന്ന് B യിലേക്ക് എത്തേണ്ടതായി വരും ഉദാഹരണത്തിന് വിമാനത്തിൽ രാത്രി മുഴുവനും യാത്ര ചെയ്യുന്നത് സാധാരണയായി സ്വീകാര്യമല്ല അതേസമയംരണ്ടു ഫ്ലൈറ്റുകൾക്കിടയിൽ ഒരു നിശ്ചിത സമയത്തിൽക്കൂടുതൽ ചെലവഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ചില കണക്ഷനുകൾ മാത്രമേയുള്ളൂ എങ്കിലും അതിൽത്തന്നെ തെറ്റായ കണക്ഷനുകൾ ഉണ്ടാകാം അവയിൽ ചിലത് മാത്രമേ യഥാർത്ഥത്തിൽ സാധ്യമാകൂ ഇപ്പോൾ നമ്മുടെ പ്രോബ്ളങ്ങൾ കുറച്ചുകൂടി നിബന്ധനകളോടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ A മുതൽ B വരെയുള്ള കണക്റ്റു ചെയ്ത എല്ലാ പാതകളിലേക്ക് മാത്രമല്ല അതിനോടൊപ്പം സമയക്രമത്തിലും മറ്റ് കാര്യങ്ങളിലും ചില അധിക നിബന്ധനകൾകൂടി നമ്മൾ പരിഗണിക്കേണ്ടതായുണ്ട് അതിനാൽ ലളിതമായ ഒരു പ്രോബ്ളം പരിഹരിക്കുന്ന അതേ സമീപനത്തിലൂടെ നമുക്ക് ഈ പ്രോബ്ളം പരിഹരിക്കാനാകുമോ അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ പ്രോബ്ളം പരിഹരിക്കുന്നതിന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ ഈ കാര്യത്തിലെ ഓരോ മേഖലയ്ക്കും ചിലവുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഒരു യാത്രക്കാരനെന്ന നിലയിൽ ടിക്കറ്റിന്റെ വിലയായിരിക്കും ചെലവ് അതിനാൽ A മുതൽ B വരെ പോകാനുള്ള ഏറ്റവും നല്ല മാർഗം കണക്കുകൂട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ ടിക്കറ്റ് നിരക്കിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നിരക്ക് കുറഞ്ഞ റൂട്ട് തിരഞ്ഞെടുക്കുന്നതാവും നമ്മുടെ തീരുമാനം തീർച്ചയായും പണം മാത്രമല്ല ഒരു ചെലവ് അത് സമയവുമാകാം A മുതൽ B വരെയുള്ള അതിവേഗ റൂട്ടും നമുക്ക് ആവശ്യമായി വന്നേക്കാം അതിൽ കാത്തിരിപ്പ് സമയം ഏറ്റവും കുറഞ്ഞ റൂട്ട് ഉൾപ്പെടുന്നു ഇതെല്ലാം നിങ്ങളുടെ മുൻഗണന എന്താണെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ അടിയന്തിരമായി ആവശ്യപ്പെടുന്നു ഒരു സാഹചര്യത്തിൽ കൂടുതൽ പണം നൽകാൻ തയ്യാറായിരിക്കും കുടുംബത്തോടൊപ്പം ഒരു അവധിക്കാലത്തിനായി പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് വളരെ റിലാക്സഡ് ആയ ഒരു ഷെഡ്യൂൾ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ മുടക്കുന്ന പണത്തിൽ നിന്ന് നമുക്ക് ഒരു മൂല്യം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് എയർലൈൻസ് കാഴ്ചപ്പാടിൽ മറ്റ് ചോദ്യങ്ങളുണ്ടാകാം ഇടയ്ക്കിടെ വിമാനം അറ്റകുറ്റപ്പണികൾക്കായി ഒരു ദിവസത്തേക്ക് ഇറക്കണം ഇപ്പോൾ എല്ലാ റൂട്ടുകളും പറക്കുന്നതും ഉപയോഗിക്കാതെ സൂക്ഷിക്കുന്നതുമായ നിരവധി വിമാനങ്ങൾ നമുക്ക് ആവശ്യമില്ല അതേ സമയം നമുക്ക് വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമാണുള്ളതെങ്കിൽ അറ്റകുറ്റപ്പണികൾക്കായി നമ്മൾ ഒരു വിമാനം ഇറക്കുമ്പോൾ ചില റൂട്ടുകൾ ത്യജിക്കേണ്ടതായി വന്നേക്കാം അങ്ങനെയുള്ളപ്പോൾ നെറ്റ്വർക്കിന്റെ കണക്റ്റിവിറ്റി അതേപടി നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഏത് റൂട്ടുകളാണ് നമ്മൾ ത്യജിക്കേണ്ടത് നമുക്ക് നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് കൊൽക്കത്തയിലേക്ക് പോകാൻ കഴിയുമായിരുന്നവെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തുന്ന സമയത്തും നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊൽക്കത്തയിലേക്ക് പോകാൻ കഴിയണം അതിനാൽ ചെലവ് കുറഞ്ഞ റൂട്ട് ഉപയോക്താക്കൾ പരിഗണിക്കുന്ന പ്രോബ്ളമാണെങ്കിൽ എയർലൈൻസ് കൈകാര്യം ചെയ്യേണ്ട പ്രോബ്ളം ഇതാണ് ഒരു ഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ വിവരിച്ച ഈ അടിസ്ഥാന എയർ നെറ്റ്വർക്കിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാൻ കഴിയുന്ന നിരവധി വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ട് ഈ കോഴ്സിൽ ഇതിൽ ചില പ്രോബ്ളങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കാണും